ശരി അതിനാൽ നമുക്ക് അവലോകനം ചെയ്യാം ഞങ്ങൾ ഉപരിതല ഇന്റഗ്രൽ ഫോർമുലേഷനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനാൽ ഞങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അവലോകനം ചെയ്യാം അതിനാൽ ഞങ്ങൾക്ക് ഈ രണ്ട് സമവാക്യങ്ങളുണ്ടായിരുന്നുവെന്ന് ഓർക്കുക അതെ എനിക്ക് ഈ സമവാക്യവും ഈ സമവാക്യവും ഉണ്ടായിരുന്നു അത് കുറച്ച് ബീജഗണിതവും മറ്റും ചെയ്തു അതിനാൽ നമ്മൾ ഇതുവരെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇത് ഇടതുവശത്തുള്ള വലതുവശത്തായിരുന്നു ഞങ്ങൾ ഇതിനെ സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ 2D പ്രശ്നം അതിനാൽ ഞങ്ങൾ വലതുവശത്ത് മുഴുവൻ ഉപരിതലത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു വലതുവശത്ത് നമുക്ക് എത്ര നിബന്ധനകൾ ഉണ്ടായിരുന്നു രണ്ട് നിബന്ധനകൾ ശരിയാണ് യുടെ പൊതുവായ വ്യവസ്ഥകൾ റദ്ദാക്കപ്പെട്ടു അതിനാൽ എനിക്ക് വലതുവശത്ത് അവശേഷിക്കുന്നത് നമുക്ക് ഇവിടെ ഈ നിബന്ധനകളിലേക്ക് മടങ്ങാം അതിനാൽ എനിക്ക് കുഴപ്പമില്ല അതിനാൽ ഈ പദം ഇവിടെയുണ്ട് g 1 അത് ആദ്യത്തെ ടേം ആയിരുന്നു പിന്നെ എനിക്ക് ലഭിച്ചത് ഇവയാണ് ഞങ്ങൾക്ക് കുറച്ച് അവകാശമുള്ള നിബന്ധനകൾ അതിനാൽ ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന നിബന്ധനകൾ അവലോകനം ചെയ്യുകയാണ് തീർച്ചയായും ഈ മുഴുവൻ കാര്യവും സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് ഒരു 2D പ്രശ്നമായതിനാൽ രണ്ട് വശങ്ങളും സംയോജിപ്പിച്ച് ഓർമ്മിക്കുക 3D യിൽ ഇത് ഒരു അവിഭാജ്യ ഡിവി ആയിരിക്കും അത് ഒരേയൊരു വ്യത്യാസമാണ് തുടർന്ന് ഇതിനെ ഒരു ഡെൽ ഡോട്ട് ആക്കി മാറ്റാൻ വെക്റ്റർ കാൽക്കുലസിന്റെ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കേണ്ടതുണ്ട് അത് എന്തായിരുന്നു വിദ്യാർത്ഥി g 1 ഇത് ശരിയാണ് അതിനുശേഷം ഞങ്ങൾ 2D യിൽ ഡൈവർജൻസ് സിദ്ധാന്തം ഉപയോഗിക്കുന്നു അതിൽ വലതുവശത്ത് മൈനസ് ചിഹ്നം വന്നു അതിനാൽ ഇത് s നേക്കാൾ മൈനസ് അവിഭാജ്യമായി മാറി അതിനാൽ ഇടതുവശത്താണ് മൈനസ് ചിഹ്നം വന്നത് കാരണം നമ്മൾ ഇൻവേർഡ് നോർമൽ ആയി തിരഞ്ഞെടുക്കുന്നു ബാഹ്യ നോർമൽ അല്ല അതിനാൽ ഇത് കൺവെൻഷൻ മൂലമാണ് അതിനാൽ ഇത് ഇടത് വശം വലതുവശത്തായിരുന്നു വലതുവശത്ത് എന്ത് സംഭവിച്ചു അതിനാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ ചെയ്തതിൽ ഒരു ചെറിയ മാറ്റം ഞങ്ങൾ ഈ അവിഭാജ്യതയായി നിർവചിച്ചു കൺവെൻഷൻ മാത്രമായ ഒരു മൈനസ് അടയാളം ഉപയോഗിച്ച് ഞാൻ അത് അൽപ്പം മാറ്റാൻ പോകുന്നു അതിനാൽ ഞങ്ങൾ ഇതിനെ അങ്ങനെ വിളിക്കാൻ പോകുന്നു ഇത് മാറാൻ പോകുന്നു കാരണം r കോർഡിനേറ്റ് സംയോജിപ്പിച്ചിരിക്കുന്നു തുടർന്ന് എനിക്ക് ഈ അവിഭാജ്യത ഇവിടെ അവശേഷിക്കുന്നു അതിനാൽ ഇവിടെ ഈ പദം രണ്ട് കേസുകളായിരുന്നു ക്ഷമിക്കണം ഇത് r ആയിരിക്കണം വിദ്യാർത്ഥി ആർ അതിനാൽ ഇത് ഒരു എപ്പോൾ വേണമെങ്കിലും ആയിരിക്കണം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വരയ്ക്കാൻ കഴിയുന്ന ഭൌതിക വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ കണ്ടെത്തും അതിനാൽ ഞാൻ ഇത് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് പുനഃക്രമീകരിക്കേണ്ടതില്ല അതിനാൽ ഞാൻ എന്താണ് പറയുന്നത് ഞാൻ ഇവിടെ എന്താണ് കാണുന്നത് ഈ നിബന്ധനകൾ നോക്കിയാൽ ഞാൻ തിരുത്തിയെഴുതുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇടത് വശത്ത് എഴുതാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ഇവ രണ്ട് കേസുകളാണ് ഇത് എന്തിന് തുല്യമാണ് അതിനാൽ ഞാൻ മറ്റെല്ലാം മറുവശത്തേക്ക് മാറ്റട്ടെ അതിനാൽ ഫൈ സംഭവം ഞാൻ മറുവശത്ത് എടുക്കും ഈ മറ്റൊരു പദം അത് ശരിയാണ് അതിനാൽ എനിക്ക് ഒരു ഉണ്ട് അവിടെയാണ് ഞാൻ ഏകീകരിക്കുന്നത് അതിനാൽ ഇപ്പോൾ ഈ സമവാക്യങ്ങൾക്ക് ഒരു ഭൌതിക വ്യാഖ്യാനം നൽകാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് ആദ്യത്തെ കേസ് ഇവിടെ എടുക്കാം എപ്പോൾ അതിനാൽ ഈ നിരീക്ഷകനിൽ ചില നിരീക്ഷകർ ഇവിടെ നിൽക്കുന്നുവെന്നും ഉറവിടം ഇവിടെത്തന്നെയാണെന്നും പറയാം അതിനാൽ ഈ വ്യക്തി പുറത്തുവിടുന്ന ഒരു ഫീൽഡ് ഉള്ളതിനാൽ സാധ്യമായ എല്ലാ വഴികളിലും ഈ ഫീൽഡ് ചിതറിക്കിടക്കാൻ പോകുന്നു ഇവിടെ നിരീക്ഷകൻ അനുമാനിക്കുന്നു നിങ്ങൾ നിരീക്ഷകൻ കാണുന്ന ഒരു വസ്തുവും ഇല്ലായിരുന്നു നിലവിലെ ഉറവിടവും നിരീക്ഷകനും മാത്രം ഒരു വസ്തുവും ഇല്ല വിദ്യാർത്ഥി ഉറവിട ഫീൽഡുകൾ സോഴ്സ് ഫീൽഡ് മാത്രം അവിടെ ഒബ്ജക്റ്റ് ഇല്ല അതിനാൽ ഇത് സംഭവ മേഖലയാണ് ഒരു വസ്തുവും ഇല്ല ഇപ്പോൾ ഞങ്ങൾ പുതിയത് അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഈ രണ്ടാം പദത്തെ ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കുന്നു അതിനാൽ രണ്ടാമത്തെ പദത്തിന്റെ വ്യാഖ്യാനം എന്തായിരിക്കണം വിദ്യാർത്ഥി ചിതറിക്കിടക്കുന്നു ചിതറിക്കിടക്കുന്ന ഫീൽഡ് ഞങ്ങൾ ഈ അളവ് നേരത്തെ നിർവചിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും ഉള്ള ഫീൽഡുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ ചിതറിയ ഫീൽഡ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒബ്ജക്റ്റ് റൈറ്റ് കാരണം ഇവിടെയുള്ള ഈ രണ്ടാമത്തെ പദത്തെ ചിതറിക്കിടക്കുന്ന ഫീൽഡ് എന്ന് വിളിക്കുന്നു അതിനാൽ അതും ഇടതുവശത്തുള്ള ഈ കാര്യത്തെയാണ് മൊത്തം ഫീൽഡ് എന്ന് വിളിക്കുന്നത് അതിനാൽ മൊത്തത്തിലുള്ള ഫീൽഡ് സംഭവത്തിന്റെയും ചിതറിക്കിടക്കുന്ന ഫീൽഡിന്റെയും ആകെത്തുകയാണ് അവ എല്ലായ്പ്പോഴും അർത്ഥവത്താണ് എന്നാൽ ഇപ്പോൾ നമ്മൾ അത് ഗണിതശാസ്ത്രപരമായി കാണുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഹ്യൂഗൻസ് തത്വത്തിന്റെ ഗണിതശാസ്ത്ര രൂപമെന്നും അറിയപ്പെടുന്നു ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്താണ് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒന്ന് കാരണം മൊത്തം ഫീൽഡ് ഇപ്പോൾ വരുന്നു ഇവയെല്ലാം ഇവിടെ രണ്ടാം ടേം എവിടെയാണ് 0 അല്ലാത്തത് എവിടെയാണ് ഇത് പൂർണ്ണമായും ഒരു ഉപരിതല ഇന്റഗ്രൽ അല്ലെങ്കിൽ 2D കേസിൽ ഒരു ലൈൻ ഇന്റഗ്രൽ ആണ് അതിനാൽ വസ്തുവിന്റെ വലതുഭാഗത്തുള്ള ദ്വിതീയ ഉറവിടങ്ങൾ പോലെയാണ് ഇവ അതിനാൽ തുടക്കത്തിൽ തന്നെ ഈ ചെറുപ്പക്കാരന്റെ ഇരട്ട സ്ലിറ്റിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു സ്ലിറ്റിന്റെ കോണുകളിൽ ദ്വിതീയ ഉറവിടങ്ങളുണ്ടെന്നും അവ പുറത്തുവിടുന്നുണ്ടെന്നും അതിനാൽ അത്തരം ദ്വിതീയ ഉറവിടങ്ങൾ ഉണ്ട് കാരണം എന്താണ് സ്ഥലം വസ്തുവിന്റെ അതിർത്തിയിൽ മാത്രമാണ് സ്ഥാനം ചിതറിക്കിടക്കുന്ന ഫീൽഡ് സൃഷ്ടിക്കുന്നതിന് അവർ ഉത്തരവാദികളാണ് അതിനാൽ അവ ഈ ഒബ്ജക്റ്റിനുള്ളിൽ സംഭവിക്കുന്ന എന്തും ആയിരിക്കാം ഈ ഒബ്ജക്റ്റിന്റെ പ്രവർത്തനമായി എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഞങ്ങൾ ചെയ്തത് ഈ തത്തുല്യമായ ഉപരിതല പ്രവാഹങ്ങളാക്കി എങ്ങനെയെങ്കിലും പരിവർത്തനം ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ ഇവ ഉപരിതല പ്രവാഹങ്ങളാണ് ഇവയെ ഇംപ്രെസ്ഡ് ഉപരിതല പ്രവാഹങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഹ്യൂഗന്റെ തത്വത്തിന്റെ ഗണിതശാസ്ത്ര രൂപമാണ് രണ്ടാമത്തെ പദത്തിന്റെ ഭൌതിക വ്യാഖ്യാനം എന്താണ് എപ്പോഴാണ് ഇത് അപ്പോൾ ഞാൻ വസ്തുവിന്റെ ഉള്ളിലേക്ക് പോയാൽ എന്താണ് വ്യാഖ്യാനം സംഭവ മണ്ഡലം കൃത്യമാണെന്നാണ് വ്യാഖ്യാനം വിദ്യാർത്ഥി തുല്യം ഒബ്ജക്റ്റിനുള്ളിലെ ഫീൽഡ് 0 ആണെന്ന് അർത്ഥമാക്കാത്ത ഒബ്ജക്റ്റിനുള്ളിലെ ചിതറിക്കിടക്കുന്ന ഫീൽഡിന് റദ്ദ് ചെയ്തതോ തുല്യമായതോ ആയതിനാൽ ഈ ഇംപ്രെഡ് വൈദ്യുതധാരകളുടെ ഈ സന്തുലിതാവസ്ഥ ഒബ്ജക്റ്റിന് പുറത്ത് അത് ശരിയായ ഫീൽഡ് ഉൽപ്പാദിപ്പിക്കുന്നുവെന്ന് നിങ്ങളോട് പറയുന്നു ഒബ്ജക്റ്റിനുള്ളിൽ അത് സംഭവ ഫീൽഡ് റദ്ദാക്കുന്നു വംശനാശ സിദ്ധാന്തത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടാമത്തെ പദമാണ് പക്ഷേ വിഷമിക്കേണ്ട കാരണം അതിന്റേതായ സമവാക്യം ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഇവിടെ എല്ലായിടത്തും സബ്സ്ക്രിപ്റ്റ് 1 കാണുന്നു ഇത് അങ്ങനെയായിരുന്നു അതിനാൽ ഉള്ളിലെ ഫീൽഡുകൾക്ക് ഒരു വേരിയബിൾ എന്താണെന്ന് ഓർമ്മിക്കാൻ പോകുമ്പോൾ ഈ സമവാക്യങ്ങൾക്കുള്ളിലെ ഫീൽഡ് അവർ സംസാരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാൽ വോളിയം 1 ന് മേലുള്ള സംയോജനം അതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഫീൽഡുകൾ എന്താണെന്ന് ഇത് എന്നോട് കൃത്യമായി പറയുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് എല്ലാ വ്യുൽപ്പന്നങ്ങളും ചെയ്തുകഴിഞ്ഞാൽ എല്ലാം എടുക്കാം അതിനാൽ നമുക്ക് അവസാന രൂപം നിലനിർത്താം വിദ്യാർത്ഥി ഫൈ 1 എന്നത് വോളിയം വഴിയുള്ള മേക്ക് ഫീൽഡാണ് അതെ വാല്യം 1 വോള്യം 2 ൽ തന്നെ നമ്മൾ അനുമാനിക്കുന്ന നെറ്റ് ഫീൽഡ് ആണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ വോള്യം 1 വോളിയം 2 എന്നിവ ഒരുമിച്ച് ചേർത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം അതിനാൽ നമുക്ക് ഔപചാരികമായി ഹ്യൂഗൻസ് തത്വവും വംശനാശ സിദ്ധാന്തവും നോക്കാം ഇത് അതിനാൽ ഞാൻ മുമ്പ് എഴുതിയ അതേ സമവാക്യവും ഇവിടെ രണ്ടാം ടേമും ചിതറിയ ഫീൽഡ് ശരിയാണ് വോളിയം 2 വലത്തേക്ക് എനിക്ക് ഇതേ പ്രക്രിയ ആവർത്തിക്കാം അതിനാൽ ഇത് എന്റേതാണെന്നും ഇത് എന്റെ അവകാശമാണെന്നും നിങ്ങൾ മറന്നുപോയെങ്കിൽ വോളിയം 2 ൽ നിലവിലുള്ള എന്തെങ്കിലും ഉറവിടം ഉണ്ടായിരുന്നോ അപ്പോൾ ഈ സമവാക്യം എങ്ങനെ വ്യത്യസ്തമായിരിക്കും സംഭവ ഫീൽഡ് പദം വൈദ്യുതധാരയുടെ അവിഭാജ്യമായി വന്നതായി സംഭവ ഫീൽഡ് ടേം ഇല്ല എന്നത് ഒരേപോലെ അംഗീകരിക്കപ്പെടും വിദ്യാർത്ഥി നിലവിലെ എന്നാൽ വോളിയം 2 ൽ കറന്റ് ഇല്ല അതിനാൽ ഞാൻ ഈ വ്യുൽപ്പന്നം ആവർത്തിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് ഇതാണ് മറ്റൊരു പ്രധാന കാര്യം ഇവിടെ ചിതറിക്കിടക്കുന്ന ഫീൽഡ് പദത്തിന് ഒരു മൈനസ് ചിഹ്നമുണ്ടായിരുന്നു കാരണം സാധാരണ ഉള്ളത് ഉള്ളതായിരുന്നു ഇവിടെയുള്ള രണ്ടാമത്തെ ടേമിൽ ഇവിടെ എന്താണ് അടയാളം എന്തിനാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് വോളിയത്തിന് ഇത് ഒരു ബാഹ്യ സാധാരണമായതിനാൽ എല്ലാം സ്ഥിരതയുള്ളതാണ് ഇപ്പോൾ റീജിയൻ 2 ന്റെ കാര്യത്തിൽ ഡെൽറ്റ ഫംഗ്ഷൻ വിലയിരുത്തുന്നു r പ്രൈം ഫീൽഡിൽ ഉൾപ്പെടുമ്പോൾ സാഹചര്യങ്ങൾ ഇവിടെ വിപരീതമാണ് അതിന്റെ പുറത്ത് എപ്പോഴാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഡെൽറ്റ ഫംഗ്ഷൻ സംയോജന മേഖലയിൽ ഇല്ല അതിനാൽ ഉത്തരം 0 ആണ് അപ്പോൾ ഇപ്പോൾ എന്താണ് ഭൌതിക വ്യാഖ്യാനം അതിനാൽ ഞാൻ ഉള്ളിലാണെങ്കിൽ ഫീൽഡ് കേവലം ഈ ഉപരിതല പ്രവാഹങ്ങളാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫീൽഡ് ആണ് ഇതിന് തുല്യമാണ് എന്ന് പറയുന്നത് എന്താണെന്ന് ഈ കേസിൽ ഞങ്ങൾ ഇതിനകം വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് വോള്യങ്ങൾ നീക്കം ചെയ്യാനും ഉപരിതലത്തിലെ വൈദ്യുതധാരകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ എന്തുചെയ്യും അതുകൊണ്ടാണ് മൊഡ്യൂളിനെ ഉപരിതല സമഗ്ര സമവാക്യങ്ങൾ എന്ന് വിളിക്കുന്നത് വിദ്യാർത്ഥി സർ ഏത് ഉപരിതലമാണ് അത് അതിരാണ് അതെ ഉപരിതലം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് 3D പ്രതലത്തിലെ അതിർത്തി 2Dയിലെ ഒരു പ്രതലമാണ് ഉപരിതലം അത് ശരിയായി അടയ്ക്കുന്നതിനുള്ള രേഖ മാത്രമായിരിക്കും ഞങ്ങൾ സംസാരിക്കുന്നത് അതിന്റെ ഉപരിതലമോ അതിരുകളോ ആണെന്ന് ഉറപ്പാക്കാൻ പറയുന്നതിന് ഈ ഇന്റഗ്രൽ കോണ്ടൂർ ഇന്റഗ്രേഷൻ വലത് സംയോജനത്തിന്റെ പ്രതീകമാണ് എന്നതാണ് ഏറ്റവും മികച്ച സൂചന അതിനാൽ ബോർഡറി ഇന്റഗ്രൽ യഥാർത്ഥത്തിൽ സാഹിത്യത്തിൽ ഉപരിതല അവിഭാജ്യത്തിനുപകരം അതേ കാരണത്താൽ ഇവയെ ബോർഡറി ഇന്റഗ്രലുകൾ എന്ന് വിളിക്കുന്നത് അതേ കാര്യം തന്നെയാണെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ മതിപ്പുളവാക്കുന്ന ഉപരിതല പ്രവാഹങ്ങളെക്കുറിച്ചുള്ള കഥ ഇതാണ് അവർ വളരെ വിചിത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്നു അവിടെ വയലുകൾ ഇവിടെയുണ്ട് ഇവിടെ വയലാണ് എന്ന തരത്തിൽ പുറത്തുള്ള വയലുകൾ വിചിത്രമായ രീതിയിൽ റദ്ദാക്കുന്നു ഇപ്പോൾ ഇതുവരെയും നമ്മൾ ഇതുവരെ r അതിർത്തി വ്യവസ്ഥകൾ നേരിട്ടിട്ടില്ല എന്നാൽ നല്ല കാര്യം ഞങ്ങൾ ഭൌതികശാസ്ത്രത്തെ മേഖല 1 മേഖല 2 ആയും അതിർത്തിയിലെ ഒരു പദമായും വേർതിരിക്കുന്നു എന്നതാണ് അതിനാൽ ആ അതിർത്തി പദമാണ് നമുക്ക് അതിർത്തി വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് വളരെ വ്യക്തമായി തോന്നുന്നില്ല പക്ഷേ നമുക്ക് അതിലേക്ക് പോകാം അതിനാൽ നമുക്ക് ഈ സമഗ്ര സമവാക്യങ്ങൾ ഔപചാരികമായി നോക്കാം അതിനാൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സമവാക്യങ്ങളുടെ സമവാക്യങ്ങൾ പരിഹരിക്കുക എന്നതാണ് ഞാൻ ഈ താഴത്തെ സമവാക്യങ്ങൾ എടുക്കാൻ പോകുന്നു ഇവയായിരുന്നു വംശനാശ സിദ്ധാന്തങ്ങൾ ഇവ രണ്ടും വംശനാശ സിദ്ധാന്തങ്ങളും ഏറ്റവും ഉയർന്ന രണ്ടും ഹ്യൂഗൻസ് സിദ്ധാന്തങ്ങളുമായിരുന്നു അതിനാൽ ഞാൻ ഈ ഓരോ സെറ്റിൽ നിന്നും താഴെയുള്ള സമവാക്യം എടുത്ത് അവ വീണ്ടും എഴുതാൻ പോകുന്നു